നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് റെസ്പോൺസിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഈ ക്ലാസ്സിൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച തുടരും കൂടാതെ ആർഎൽസി സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ അവസ്ഥ കാണുകയും ആ സർക്യൂട്ടിലേക്ക് സ്റ്റെപ് പ്രതികരണം നൽകുകയും ചെയ്യും അതിനാൽ അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും നോക്കാം അവസാന ക്ലാസ്സിൽ ഒരു സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് ചർച്ചചെയ്തു കൂടാതെ സ്വിച്ച് അടയ്ക്കുമ്പോൾ t 0 ന് തുല്യമാണെന്ന് ചർച്ചചെയ്തു ഈ സർക്യൂട്ടിന്റെ സമവാക്യം ആണ് ഇവിടെ Vs വോൾട്ടേജ് ഉറവിടമാണ് ഇപ്പോൾ സമവാക്യം പുനക്രമീകരിക്കുമ്പോൾ രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിച്ചു

സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ മെഷ് വിശകലനത്തെ അടിസ്ഥാനമാക്കി ശേഖരിച്ച സമവാക്യത്തിന്റെ പരിഹാരത്തിന് 2 ഘടകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി 1 സ്വാഭാവിക പ്രതികരണവും മറ്റൊന്ന് നിർബന്ധിത പ്രതികരണവുമാണ് മൊത്തം പ്രതികരണം നിർബന്ധിത പ്രതികരണവും സ്വാഭാവിക പ്രതികരണവുമാണെന്ന് കണ്ടു സ്വാഭാവിക പ്രതികരണം ലഭിക്കാൻ Vs 0 ന് തുല്യമായി സജ്ജമാക്കി ഓവർഡാംപ്ഡ് ക്രിട്ടിക്കലി ഡാംപ്ഡ് അണ്ടർഡാമ്പ്ഡ് സാഹചര്യം എന്നിവ പോലുള്ള 3 വ്യവസ്ഥകൾ കണ്ടെത്തി ഈ 3 വ്യവസ്ഥയിൽ 3 വോൾട്ടേജ് മൂല്യം ലഭിച്ചു ഫോഴ്സ് പ്രതികരണം കപ്പാസിറ്ററിന് കുറുകെയുള്ള സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ചർച്ചചെയ്തു അത് വോൾട്ടേജ് Vs അല്ലാതെ മറ്റൊന്നുമല്ല ഒടുവിൽ ഓവർഡാമ്പ് ചെയ്ത കേസ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ് അണ്ടർഡാംപ്ഡ് കേസ് എന്നീ 3 വ്യവസ്ഥകൾ ഞങ്ങൾക്ക് ലഭിച്ചു അജ്ഞാത പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഈ 3 സമവാക്യങ്ങൾ ലഭിച്ചു അവ A1 A2 എന്നിവയാണ് ഈ A1 A2 എന്നിവയുടെ മൂല്യം നമുക്ക് പ്രാരംഭ വോൾട്ടേജ് അല്ലെങ്കിൽ പ്രാരംഭ അന്തിമ അവസ്ഥകൾ കാണുന്നതിന് സഹായിക്കും കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ഇൻഡക്റ്ററിലൂടെയുള്ള പ്രാരംഭ വൈദ്യുതധാരയും അതുപോലെ തന്നെ അന്തിമ മൂല്യങ്ങളും ഇനി എന്തു ചെയ്യും ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഈ വസ്തുത മനസിലാക്കാൻ ശ്രമിക്കും അതിനാൽ എന്തു ചെയ്യും ഈ ഉദാഹരണം എടുക്കും ഈ ഉദാഹരണത്തിൽ സമയം 0 ന് തുല്യമാകുമ്പോൾ സ്വിച്ച് തുറക്കുകയും ചിത്രത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് R 5 ഓം ആകുകയും ചെയ്യുന്നു തുടക്കത്തിൽ സ്വിച്ച് അടയ്ക്കുകയും അത് തുറക്കുമ്പോൾ സർക്യൂട്ട് സീരീസ് ആർഎൽസി സർക്യൂട്ടായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഏത് t സമയത്തും കറന്റ് i യുടെ മൂല്യവും വോൾട്ടേജിന്റെ മൂല്യവും കണ്ടെത്താൻ ശ്രമിക്കാം തുടക്കത്തിൽ t0 സമയത്തേക്ക് ഈ സ്വിച്ച് അടയ്ക്കുമ്പോൾ ഈ ചിത്രം കണ്ടാൽ എന്ത് സംഭവിക്കും ഈ പ്രത്യേക സർക്യൂട്ട് ഇൻഡക്റ്ററിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായി നൽകും കാരണം ഇത് സ്വിച്ച് ധാരാളം സമയം ബന്ധിപ്പിച്ചിരിക്കുന്നു കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഇത് ഒരു നിശ്ചിത മൂല്യത്തിലേക്ക് ചാർജ് ചെയ്യപ്പെടും ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ സർക്യൂട്ടിൽ അവശേഷിക്കുന്നത് ഈ 2 റെസിസ്റ്റൻസ് മാത്രമാണ് അതിനാൽ ഈ 2 റെസിസ്റ്റൻസ് അടിസ്ഥാനമാക്കി t സമയത്ത് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം എന്തായിരിക്കുമെന്ന് കണ്ടെത്താനാകും ഒപ്പം സമയം t 0 ന് തുല്യമാകുമ്പോൾ ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം എന്തായിരിക്കും അതായിരിക്കും നമ്മുടെ ആരംഭം ഇപ്പോൾ ചോദ്യത്തിൽ 5 ഓം ആയി നൽകിയിരിക്കുന്നു സമയം 0 ന് തുല്യമാകുമ്പോൾ ഇപ്പോൾ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ പ്രത്യേകിച്ചും ആ സമയത്ത് ടി 0 ന് തുല്യമാകുമ്പോൾ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് ഈ 2 റെസിസ്റ്റൻസ് മാത്രമേ സർക്യൂട്ടിൽ ഉള്ളൂവെന്നും ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതപ്രവാഹം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹമല്ലാതെ മറ്റൊന്നുമല്ലെന്നും ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നമുക്ക് ലഭിക്കുന്നത് 24 വോൾട്ട് വോൾട്ടേജ് ഉറവിടവും R ന്റെ മൂല്യം 5 ഉം ആണ് 1 ഓം റെസിസ്റ്റൻസിന്റെ മൂല്യം 5 ഓം റെസിസ്റ്റൻസുമായി ശ്രേണിയിൽ ചേർക്കുന്നു അതിനാൽ സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ് 6 ഓം ആണ് ഇത് 24 വോൾട്ടിന് കുറുകെപ്രയോഗിക്കുന്നു പ്രാരംഭ കറന്റ് സമയം t 0 ന് തുല്യമാകുമ്പോൾ കറന്റ് 4 ആമ്പിയർ ആണ് ഇപ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രാരംഭ വോൾട്ടേജ് 1 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന് തുല്യമായിരിക്കും അതിനാൽ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും 1 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് സർക്യൂട്ടിൽ ഒഴുകുന്ന കറന്റ് 4 ആമ്പിയർ ആണെന്ന് നമുക്കറിയാം അതിനാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 4 ആമ്പിയർ 1 ഓം ഗുണിച്ചാൽ 4 വോൾട്ട് ആയിരിക്കും അതിനാൽ നമുക്ക് കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രാരംഭ വോൾട്ടേജ് ലഭിക്കുന്നത് 4 വോൾട്ടല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ 0 ൽ കൂടുതലുള്ള സമയം സ്വിച്ച് തുറക്കുമ്പോൾ 1 ഓം റെസിസ്റ്റർ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾ സമയം 0 ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഈ പ്രത്യേക റെസിസ്റ്റർ സർക്യൂട്ടിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഇപ്പോൾ സർക്യൂട്ടിൽ 5 ഓം 1 ഹെൻട്രി ഇൻഡക്റ്റർ 0 5 ഫാരഡ് കപ്പാസിറ്റർ എന്നിവ മാത്രമേ ഉണ്ടാകൂ അതിനാൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ സാധാരണ കേസ് കാണുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇത് സീരീസ് ആർഎൽസി സർക്യൂട്ട് ആയതിനാൽ സ്വഭാവ റൂട്ടുകളുടെ മൂല്യം എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്തു അതിനാൽ α ന്റെ മൂല്യം നമുക്ക് കണ്ടെത്താം α R2L ആൽഫയുടെ മൂല്യം 2 5 ആയി ലഭിക്കും അതിന്റെ മൂല്യം 2 ആണ് ഇപ്പോൾ ɑ അതിനർത്ഥം ഓവർഡാമ്പ് ചെയ്ത അവസ്ഥയുണ്ടെന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഓവർഡാമ്പ് എന്നതിനർത്ഥം സ്വഭാവ റൂട്ടുകളുടെ മൂല്യം 1 4 ആയിരിക്കും അത് ഫോർമുലയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അതായത് അതിനാൽ ഇത് ഓവർഡാമ്പ്ഡ് നാച്ചുറൽ പ്രതികരണമായതിനാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം ഏത് t സമയത്തും ആയി നൽകാം ഇപ്പോൾ നിർബന്ധിത അല്ലെങ്കിൽ സ്ഥിരമായ സ്റ്റേറ്റ് പ്രതികരണമാണ് അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ പരിഷ്കരിച്ച സർക്യൂട്ട് ചിത്രത്തിൽ നിന്ന് കാണുകയാണെങ്കിൽ Vs എന്നത് ന്റെ അന്തിമ മൂല്യമാണ് Vs അല്ലാതെ മറ്റൊന്നുമല്ല കാരണം കപ്പാസിറ്റർ അതിന്റെ മൂല്യത്തിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ കറന്റ് 0 ആയിരിക്കും അതിനാൽ സ്ഥിരമായ സ്റ്റേറ്റ് അവസ്ഥയിൽ ന്റെ മൂല്യം 24 വോൾട്ട് ആയിരിക്കും അതിനാൽ നമുക്ക് ഇപ്പോൾ എന്ന് എഴുതാം ഇപ്പോൾ അടുത്ത ദൌത്യം പ്രാരംഭ അവസ്ഥയിൽ നിന്ന് എ 1 എ 2 എന്നിവയുടെ മൂല്യം കണ്ടെത്തുക എന്നതാണ് അത് ആ സമയത്ത് V 0 ന് തുല്യമാണ് വോൾട്ടേജിന്റെ മൂല്യം 4 വോൾട്ടായിരുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ t 0 ആകുമ്പോൾ ഈ സമവാക്യം നമുക്ക് ലഭിക്കും സമയം 0 ന് തുല്യമാകുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതാണ് അടുത്തതായി ഇൻഡക്റ്ററിലൂടെയുള്ള കറന്റ് പെട്ടെന്ന് മാറാൻ കഴിയില്ലെന്നും സമയം t 0 പ്ലസിന് തുല്യമാകുമ്പോൾ അതേ കറന്റ് ഒഴുകുന്നുവെന്നും നമുക്കറിയാം സ്വിച്ച് തുറക്കുമ്പോഴും ഇൻഡക്റ്ററിലൂടെ കറന്റ് പെട്ടെന്ന് മാറാൻ കഴിയില്ല കാരണം ഇത് സീരീസ് സർക്യൂട്ട് അതിനാൽ t സമയത്ത് 0 ന് തുല്യമായ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് കപ്പാസിറ്ററിലൂടെയും തുടരും അതിനാൽ നമുക്ക് മുമ്പ് കണക്കാക്കിയ എന്ന് പറയാം അതിനാൽ സമയം 0 ന് തുല്യമാകുമ്പോൾ എന്നത് 16 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് നിങ്ങൾക്ക് സമവാക്യത്തിൽ നിന്ന് കണക്കാക്കാം ഈ അവസ്ഥ ഉപയോഗിക്കുന്നതിന് മുമ്പ് സമയം t 0 ന് തുല്യമാകുമ്പോൾ ആണ് നമ്മൾ ആദ്യം v യുടെ ഡെറിവേറ്റീവ് എടുക്കണം അതിനാൽ ഇത് t സമയത്തെ v യുടെ മൂല്യം ഇതാണ് അതിനാൽ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാം ഡെറിവേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഇപ്പോൾ t 0 ന് തുല്യമാകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സമവാക്യം ലഭിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് A1 A2 എന്നിവയ്ക്കായി 2 സമവാക്യങ്ങളുണ്ട് ആദ്യം ഇവിടെ നിന്ന് ലഭിച്ചു രണ്ടാമത്തേത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചു അതിനാൽ ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിക്കാനും A1 A2 എന്നിവയുടെ മൂല്യം കണ്ടെത്താനും കഴിയും അതിനാൽ A1 A2 എന്നിവയുടെ മൂല്യം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജിനുള്ള മൂല്യത്തിൽ ഇടാം കൂടാതെ സമവാക്യത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഏത് സമയത്തും വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ലഭിക്കും ഇപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ശ്രേണിയിലായതിനാൽ ഇൻഡക്റ്റർ കറന്റ് കപ്പാസിറ്റർ കറന്റിന് തുല്യമാണ് അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും ഇൻഡക്റ്റർ കറന്റ് i സി സി ഡിവി ബൈ ഡിടി ആയി നൽകാമെന്ന് പറയാം അതിനാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കപ്പാസിറ്റർ സി കൊണ്ട് ഗുണിച്ചാൽ കറന്റ് i യുടെ മൂല്യം ലഭിക്കും ഇപ്പോൾ ടി യുടെ മൂല്യം 0 ആയി ഇടുകയാണെങ്കിൽ കറന്റ് i നായി കണ്ടെത്തിയ അതേ പദപ്രയോഗം ലഭിക്കും ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഫലമാണ് അതിനാൽ ഇൻഡക്റ്റർ കറന്റും കപ്പാസിറ്റർ വോൾട്ടേജും ആയ പ്രാരംഭ മൂല്യങ്ങളുടെ സഹായത്തോടെ A1 A2 എന്നി അജ്ഞാത മൂല്യം കണക്കാക്കാം ഇപ്പോൾ സമാന്തര ആർഎൽസി സർക്യൂട്ടിനായുള്ള സ്റ്റെപ് പ്രതികരണമായ രണ്ടാമത്തെ കേസിലേക്ക് പോകാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സമാന്തര ആർഎൽസി സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നുവെന്ന് കരുതുക എന്താണ് ചെയ്യുന്നത് സമയം 0 ന് തുല്യമാകുമ്പോൾ തുടക്കത്തിൽ സ്വിച്ച് അടയ്ക്കുന്നു തുടർന്ന് സ്വിച്ച് തുറക്കുന്നു അങ്ങനെ സമയം 0 ൽ താഴെയാകുമ്പോൾ സമാന്തര ആർഎൽസി സർക്യൂട്ട് ലഭിക്കും കറന്റ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ ഇത് സമാന്തര ആർഎൽസി സർക്യൂട്ടായി പരിവർത്തനം ചെയ്യും ഇപ്പോൾ t 0 നേക്കാൾ വലുതാണെങ്കിൽ മുകളിലുള്ള നോഡിൽ KCL പ്രയോഗിക്കാം അതിനാൽ എന്ത് സംഭവിക്കും കറന്റ് I s ന്റെ മൂല്യം R L C എന്നിങ്ങനെ 3 സർക്യൂട്ട് ഘടകങ്ങളായി വിഭജിക്കപ്പെടും അതിനാൽ റെസിസ്റ്റൻസ് R വഴി ഒഴുകുന്ന കറന്റ് മൂല്യം എന്തായിരിക്കും V ബൈ R V എന്നത് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല i എന്നത് ഇൻഡക്റ്ററിലൂടെയും കപ്പാസിറ്ററിലൂടെയും ഒഴുകുന്ന കറന്റ് കപ്പാസിറ്റർ കറന്റ് C dv ബൈ dt ആയി നൽകാം ഈ 3 വൈദ്യുതധാരകളുടെ ആകെത്തുക ഉറവിട കറന്റ് മൂല്യത്തിന് Is ന് തുല്യമായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഈ സമവാക്യത്തിൽ v യുടെ മൂല്യം ഇടുന്നു അവസാന സമവാക്യം പുനക്രമീകരിക്കുമ്പോൾ സർക്യൂട്ടിന്റെ സമാന്തര സംയോജനത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇതാണ് ഇപ്പോൾ പൂർണ്ണമായ പരിഹാരം സ്വാഭാവിക പ്രതികരണവും നിർബന്ധിത പ്രതികരണവും ഉൾക്കൊള്ളുന്നു അതിനാൽ മൊത്തം കറന്റ് i എഴുതാൻ കഴിയും വൈദ്യുതപ്രവാഹത്തിന്റെ നിർബന്ധിത പ്രതികരണവും സ്വാഭാവിക പ്രതികരണവും മാത്രമാണ് സോഴ്സ് ഫ്രീ സമാന്തര ആർഎൽസി സർക്യൂട്ട് ചർച്ചചെയ്യുമ്പോൾ മുമ്പത്തെ വിഭാഗത്തിൽ ലഭിച്ചതുപോലെയാണ് ഇപ്പോൾ വൈദ്യുതപ്രവാഹത്തിന്റെ നാച്ചുറൽ പ്രതികരണം അതിനാൽ നമുക്ക് ആ സമവാക്യങ്ങൾ എഴുതാം ഓവർഡാമ്പിൻറെ നാച്ചുറൽ പ്രതികരണം ആണ് ഇവിടെ എന്നിവ ഭരണ സമവാക്യത്തിന്റെ റൂട്ടുകളാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ് ആയിരിക്കുമ്പോൾ സ്വാഭാവിക പ്രതികരണം ആയിരുന്നു ഡാമ്പിംഗ് കൊയിഫിഷ്യന്റ് അണ്ടർഡാമ്പ് കേസ് ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു ഇവിടെ എന്നത് ഡാമ്പിംഗ് ഫ്രീക്വൻസിയാണ് സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണമായ സോഴ്സ് ഫ്രീ പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ 3 കേസുകൾ ലഭിച്ചു ഇപ്പോൾ നിർബന്ധിത പ്രതികരണം i യുടെ സ്ഥിരമായ അവസ്ഥ അല്ലെങ്കിൽ അന്തിമ മൂല്യമാണ് അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ സർക്യൂട്ട് കണ്ടാൽ ഈ ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അതിനാൽ മുഴുവൻ കറന്റ് Is ഉം ഇൻഡക്ടറിലൂടെ ഒഴുകും ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ അന്തിമ മൂല്യം ഉറവിട കറന്റ് Is ന് തുല്യമാണെന്ന് പറയാൻ കഴിയും അതിനാൽ നിർബന്ധിത പ്രതികരണം if ന് പകരം Is ന്റെ മൂല്യം ചേർക്കും അതിനാൽ കറന്റിന്റെ മൊത്തം മൂല്യം ലഭിക്കും ഓവർഡാമ്പ് ചെയ്ത സാഹചര്യത്തിൽ Is പ്ലസ് സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം ഉറവിടം ലഭ്യമല്ലാത്തപ്പോൾ വീണ്ടും Is പ്ലസ് സർക്യൂട്ടിന്റെ ക്രിട്ടിക്കലി ഡാംപ്ഡ് പ്രതികരണം പ്ലസ് അണ്ടർഡാമ്പ് ചെയ്താൽ Is പ്ലസ് അണ്ടർഡാംപ്ഡ് സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണവും ലഭിക്കും അതിനാൽ ഡംപിംഗ് കൊയിഫിഷ്യന്റ്കളെയും സർക്യൂട്ടിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെയും സംബന്ധിച്ച വിവിധ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി ഈ 3 കേസുകളും ലഭിക്കുന്നു അത് α എന്നിവയാണ് അതിനാൽ വിവിധ വ്യവസ്ഥകളിൽ കറണ്ടിന്റെ 3 മൂല്യങ്ങൾ ലഭിക്കും ഓവർഡാമ്പ്ഡ് ചെയ്താൽ α ക്രിട്ടിക്കലി ഡാംപ്ഡ് α അണ്ടർഡാമ്പ് ചെയ്ത സാഹചര്യത്തിൽ α അതിനാൽ കറണ്ടിന്റെ സമവാക്യങ്ങളുടെ കൂട്ടത്തിൽ A1 A2 എന്നിവ അജ്ഞാതമായ 2 കാര്യങ്ങളാണെന്ന് അതിനാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താനാകും എ 1 എ 2 എന്നിവയുടെ മൂല്യം കണ്ടെത്തുന്നതിന് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെയും ഇൻഡക്റ്ററിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതധാരയുടെയും പ്രാരംഭ മൂല്യങ്ങൾ വീണ്ടും ഉപയോഗിക്കാം നമുക്ക് 1 ഉദാഹരണം എടുക്കാം അതിനാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഇവിടെ സർക്യൂട്ട് കണ്ടാൽ സമയം 0 ൽ താഴെയായിരിക്കുമ്പോൾ 4 ആമ്പിയർ കറന്റ് ഉറവിടം ഇൻഡക്ടറിന് കുറുകെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ കറന്റ് ഇൻഡക്റ്ററിലൂടെ മാത്രം ഒഴുകുന്നു അതിനാൽ 0 ന് താഴെയുള്ള സമയത്ത് സർക്യൂട്ട് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നുവെന്ന് പറയാൻ കഴിയും ഒരു ഭാഗം കറന്റ് ഉറവിടം ലഭ്യമാകുന്നിടത്ത് രണ്ടാം ഭാഗം വോൾട്ടേജ് ഉറവിടം ലഭ്യമാകുന്നിടത്തും അതിനാൽ സ്വിച്ച് തുറക്കുമ്പോൾ 0 ൽ താഴെയുള്ള സമയത്ത് 20 ഹെൻറി ഇൻഡക്ടറിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുന്നു സമയം 0 ന് തുല്യമാകുമ്പോൾ കറന്റ് i 4 ആമ്പിയർ അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ സർക്യൂട്ടിന്റെ രണ്ടാം ഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് 30u വോൾട്ട് ആണ് ഇതിനർത്ഥം 0 ൽ താഴെയുള്ള സമയം വോൾട്ടേജിന്റെ മൂല്യം 30 വോൾട്ട് ആണ് ആ സമയത്ത് ടി 0 നേക്കാൾ കൂടുമ്പോൾ ഈ മൂല്യം 0 വോൾട്ടായി മാറി അതായത് സ്വിച്ച് അടയ്ക്കുമ്പോൾ ഈ വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u ആണ് അതിനർത്ഥം സമയം t എന്നത് 0 ന് തുല്യമോ 0 നേക്കാൾ കുറവോ ആയിരിക്കുമ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് ഒരു മൂല്യമുണ്ട് പക്ഷേ t 0 നെക്കാൾ വലുതാകുമ്പോൾ 0 ആണ് അതിനാൽ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് പരിഹരിക്കാൻ മുന്നോട്ട് പോകാം സമയം 0 ൽ കുറവാണെങ്കിൽ ഈ സ്വിച്ച് തുറന്നിരിക്കുന്നു അതിനാൽ ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന പ്രാരംഭ കറന്റ് 4 ആമ്പിയർ ആണെന്ന് കണ്ടെത്തി സമയം 0 ൽ കുറവാണെങ്കിൽ u 30 ന് തുല്യമാണ് 0 നേക്കാൾ വലുതാകുമ്പോൾ 0 ആണ് അതിനാൽ സമയം 0 ൽ കുറവാണെങ്കിൽ മാത്രമേ വോൾട്ടേജ് ഉറവിടം സർക്യൂട്ടിൽ പ്രയോഗിക്കൂ ഇപ്പോൾ t എന്നത് 0 മൈനസിന് തുല്യമാണ് അതായത് സ്വിച്ച് അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതിനു കുറുകെ വോൾട്ടേജ് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 20 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന് തുല്യമാണ് അതിനാൽ സർക്യൂട്ടിന്റെ ഈ സെഗ്മെന്റ് വോൾട്ടേജ് നിങ്ങൾ കാണുകയാണെങ്കിൽ സ്വിച്ച് വളരെക്കാലം തുറന്നിരിക്കുന്നതിനാൽ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 20 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന് തുല്യമായിരിക്കും ഇപ്പോൾ 0 ൽ താഴെയുള്ള സമയത്ത് വോൾട്ടേജ് ഉറവിടത്തിന്റെ മൂല്യം 30 വോൾട്ട് ആണ് ഇവ 2 ഉം സീരീസിലാണ് കാരണം ഈ ദിശയിലൂടെ വൈദ്യുത പ്രവാഹം നടക്കും അതിനാൽ കപ്പാസിറ്ററിന് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 20 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം എന്തായിരിക്കും നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗിക്കാം സമയം 0 ന് തുല്യമാകുമ്പോൾ ഈ വോൾട്ടേജിന്റെ മൂല്യം 15 വോൾട്ട് അല്ലാതെ മറ്റൊന്നുമല്ല സ്വിച്ച് അടയ്ക്കുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രാരംഭ വോൾട്ടേജാണിത് അതിനാൽ നമുക്ക് 2 പ്രാരംഭ നിബന്ധനകൾ ലഭിച്ചു സമയം t 0 ന് തുല്യമാകുമ്പോൾ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് സമയം t 0 ന് തുല്യമാകുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 0 ൽ കൂടുതലുള്ള സമയം എന്ത് സംഭവിക്കും സ്വിച്ച് അടച്ചിരിക്കുന്നു കൂടാതെ ഒരു കറന്റ് സ്രോതസ്സുമായി സമാന്തര ആർഎൽസി സർക്യൂട്ട് ഉണ്ട് ഇപ്പോൾ വോൾട്ടേജ് ഉറവിടം ഓഫാണ് കാരണം 0 നേക്കാൾ കൂടുതലുള്ള സമയത്തിന് ഇത് 0 ആയിരിക്കും അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഇപ്പോൾ 20 ഓമും ഈ 20 ഓമും സമാന്തരമായിരിക്കും അതിനാൽ സർക്യൂട്ടിന് കുറുകെയുള്ള ഫലപ്രദമായ R ന്റെ മൂല്യം 10 ഓം ആയിരിക്കും കാരണം 20 ഓമും 20 ഓമും സമാന്തരമാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അതിനാൽ ഇപ്പോൾ നമുക്ക് സമാന്തര ആർഎൽസി സർക്യൂട്ടുകളുടെ ഒരു കേസ് ഉണ്ട് അതിനാൽ നമുക്ക് ഇൻഡക്റ്റർ ഉണ്ട് കപ്പാസിറ്റർ ഉണ്ട് കൂടാതെ 10 ഓം തുല്യമായ റെസിസ്റ്റൻസ് ഉണ്ട് അത് വീണ്ടും സമാന്തരമാണ് അതിനാൽ ഇപ്പോൾ എന്തുചെയ്യാൻ കഴിയും സമാന്തര ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ലഭിച്ച സമവാക്യങ്ങൾ പ്രയോഗിക്കാൻ കഴിയും അതിനാൽ സ്വഭാവഗുണമുള്ള റൂട്ടുകൾ മുമ്പ് കണക്കാക്കിയ മൂല്യങ്ങളുടെ സഹായത്തോടെ നിർണ്ണയിക്കാൻ കഴിയും അതിനാൽ α എന്നത് 1RC അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ R C എന്നിവയുടെ മൂല്യം ഇടുകയാണെങ്കിൽ R 10 ആണ് C 8 മില്ലി ഫാരഡാണ് അതിനാൽ ഇത് 8 ഇന്റു 10 പവർ 3 ആയി മാറും കൂടാതെ α യുടെ മൂല്യം 6 25 ആയി ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഇത് 2 5 ആയി ലഭിക്കും ഇവിടെ α ഇത് ഓവർഡാംപ്ഡ് സർക്യൂട്ടിന്റെ ഒരു കേസാണെന്ന് പറയാം റൂട്ടുകളുടെ മൂല്യം അതായത് നമുക്ക് 2 സ്വഭാവ റൂട്ടുകൾ ലഭിക്കുന്നു കറന്റ് i ന്റെ മൂല്യം എഴുതാം അത് നിർബന്ധിത പ്രതികരണം if തുല്യമാണ് ഇവിടെ if ആണെങ്കിൽ അതിന്റെ മൂല്യം സമാന്തര ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ കണക്കാക്കിയതും നാച്ചുറൽ പ്രതികരണവും അതായത് ഇവിടെ 4 ന് തുല്യമാണ് ധാരാളം സമയം സർക്യൂട്ട് സ്വിച്ച് അടയ്ക്കുമ്പോൾ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുകയും മുഴുവൻ വൈദ്യുതധാരയും 20 ഹെൻട്രി ഇൻഡക്ടറിലൂടെ ഒഴുകുകയും ചെയ്യും അതിനാൽ സർക്യൂട്ടിൽ 4 ആമ്പിയർ ആണെന്ന് അർത്ഥമാക്കുന്നു ഇപ്പോൾ മുകളിലുള്ള സമവാക്യത്തിൽ t യുടെ മൂല്യം 0 ന് തുല്യമാണെങ്കിൽ ഇപ്പോൾ കണക്കാക്കിയ കറന്റ് 4 ആണ് അതിനാൽ A2 A1 ലഭിക്കും ഇപ്പോൾ മുകളിലുള്ള സമവാക്യത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ സമയം t 0 ന് തുല്യമാകുമ്പോൾ ഈ പദപ്രയോഗം ലഭിക്കും

കപ്പാസിറ്ററിനു കുറുകെയുള്ള വോൾട്ടേജ് പെട്ടെന്ന് മാറാൻ കഴിയില്ലെന്ന് നമുക്കറിയാം അതിനാൽ ഇത് 15 വോൾട്ടായി തുടരും കപ്പാസിറ്റർ ഇൻഡക്റ്ററിന് സമാന്തരമായിരിക്കുന്നതിനാൽ ഇൻഡക്റ്ററിന് കുറുകെയുള്ള അതേ വോൾട്ടേജ് പ്രയോഗിക്കും അതിനാൽ ഇൻഡക്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് എഴുതാം അത് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ സമവാക്യത്തിൽ ഈ മൂല്യം ഇട്ടതിനാൽ A2 ന്റെ മൂല്യം ലഭിക്കും സമയം 0 ന് തുല്യമാകുമ്പോൾ നമ്മൾ കണക്കാക്കിയ എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ A1 A2 എന്നിവ സമവാക്യങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് സമയം 0 ന് തുല്യമാകുമ്പോൾ i 4 ആമ്പിയർ ആണ് ഇപ്പോൾ 2 സമവാക്യങ്ങൾ ലഭിച്ചു അത് പരിഹരിക്കാനും A2 ന്റെ മൂല്യം നേടാനും അതുപോലെ തന്നെ A1 ന്റെ മൂല്യം നേടാനും കഴിയും ഇപ്പോൾ A1 A2 എന്നിവയുണ്ട് കറന്റ് i ന്റെ മൂല്യം 4 അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാം കൂടാതെ ഘടകങ്ങളുടെ മൂല്യം നൽകാം അതിനാൽ ഈ പ്രത്യേക സമവാക്യം ലഭിക്കും അതിനാൽ ടി യുടെ കാര്യത്തിൽ വൈദ്യുതധാരയുടെ അന്തിമ പ്രകടനമാണിത് അതിനാൽ സമാന്തര ആർഎൽസി സർക്യൂട്ട് ഉള്ളപ്പോൾ എ 1 എ 2 എന്നിവയുടെ മൂല്യം കണക്കാക്കാം അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ സെഷനിൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിനും സമാന്തര ആർഎൽസി സർക്യൂട്ടിനുമുള്ള സ്റ്റെപ്പ് പ്രതികരണം ചർച്ചചെയ്തു ഇപ്പോൾ ഈ ആദ്യ ഓർഡർ രണ്ടാം ഓർഡർ സമവാക്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും കാരണം ഇത്തരത്തിലുള്ള സമവാക്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ആദ്യ ഓർഡറും രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പരിഹരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അതിനാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കുന്ന മറ്റൊരു ടെക്നിക് ഉപയോഗിക്കും ആദ്യം ലാപ്ലേസ് പരിവർത്തനം മനസിലാക്കാൻ ശ്രമിക്കും തുടർന്ന് ഈ ആദ്യ ഓർഡറും രണ്ടാമത്തെ ഓർഡർ സമവാക്യങ്ങളും ആദ്യത്തെ ഓർഡറും രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടുകളും പരിഹരിക്കാൻ ഈ സാങ്കേതികത പ്രയോഗിക്കും